ഈ ട്യൂട്ടോറിയലിൽ വിവിധ OSN കളിൽ നിന്ന് ശേഖരിച്ച ഡാറ്റ സംഭരിക്കുന്നതിന് ഡാറ്റാ ബേസുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് പഠിക്കാം നമുക്ക് MySQL ഉപയോഗിച്ച് ആരംഭിക്കാം MySQL എന്നത് ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് അത് റിലേഷണൽ ഡാറ്റാ ബേസ് SQL എന്നിവ ഉപയോഗിക്കുന്നു ആദ്യ പടിയായി നമുക്ക് MySQL ഇൻസ്റ്റാൾ ചെയ്യാം അതിനുവേണ്ടി നിങ്ങളുടെ ടെർമിനലിലേക്ക് പോയി sudo apt എന്ന് ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക MySQL ഹൈഫൻ സെർവറിൽ എന്റർ അമർത്തി നിങ്ങളുടെ സുഡോ പാസ്വേഡ് എന്റർ ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് ഒരു പാസ്വേഡ് ആവശ്യപ്പെടും നിങ്ങൾ അത് കുറിച്ച് എടുക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾക്ക് ഇത് പിന്നീട് ആവശ്യമായി വരും അടുത്ത ഘട്ടത്തിൽ MySQL എങ്ങനെ ക്രമീകരിക്കാമെന്ന് നമുക്ക് കാണാം അത് ചെയ്യുന്നതിന് sudo mysql secure installation എന്ന് ടൈപ്പ് ചെയ്യുക റൂട്ട് ചെയ്യുന്നതിന് ആയി നിലവിലെ പാസ്വേഡ് നൽകുക ഇപ്പോൾ നിങ്ങൾ റൂട്ട് പാസ്വേഡ് മാറ്റരുത് കാരണം നിങ്ങൾ ഇതിനകം സജ്ജമാക്കിയിട്ടുണ്ട് അതിനാൽ n അമർത്തുക n അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അജ്ഞാത അക്കൌണ്ടുകൾ നീക്കംചെയ്യാനും ഒന്നു കൂടി n അമർത്തിയാൽ നിങ്ങൾക്ക് വിദൂരമായ റൂട്ട് ലോഗിൻ അനുവദിക്കാതിരിക്കുവാനും കഴിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ഡാറ്റാ ബേസ് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അത് അതേപടി വിടുകയോ ചെയ്യാം ഞങ്ങൾ അത് ഡിലീറ്റ് ചെയ്യുകയാണ് നമുക്ക് ഇപ്പോൾ പ്രിവിലേജ് ടേബിളുകൾ റീലോഡ് ചെയ്ത് yes എന്നത് അമർത്താം ഇത് MySQL ന്റെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയാക്കുന്നു ഇപ്പോൾ MySQL ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻനമുക്ക് MySQL വേർഷൻ പരിശോധിക്കാം അതിനായി MySQL minus version എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യാം MySQL വേർഷൻ 5 5 5 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് അതിൽ പറയുന്നു MySQL ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് MySQL ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അത് ചെയ്യുന്നതിന്MySQL minus u root minus p എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക നിങ്ങളുടെ MySQL അഡ്മിൻ അക്കൌണ്ടിന് വേണ്ടി നിങ്ങൾ നിർമിച്ച പാസ്സ്വേർഡ് നൽകി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഇപ്പോൾ പൈത്തണിനെ MySQL ലേക്ക് ബന്ധിപ്പിക്കുന്നതിന് നമുക്ക് MySQL dd മൊഡ്യൂൾ ആവശ്യമാണ് അത് ചെയ്യുന്നതിന് apt get install എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക ഞങ്ങൾ ടൈപ്പ് ചെയ്യുന്നില്ല എന്നത് ശ്രദ്ധിക്കുക എന്നാൽ നമ്മൾ apt get build dep എന്ന കമാൻഡ് ഉപയോഗിക്കുന്നു ഇത് ഇനിപ്പറയുന്ന പാക്കേജിനായി ഡിപൻഡൻസികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു അടുത്തതായി sudo pip install MySQL hyphen python എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് പൈത്തൺ MySQL ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പോൾ പൈത്തൺ മൊഡ്യൂളും MySQL ഉം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻനമുക്ക് പൈത്തൺ CLI ലേക്ക് പോകാൻ ശ്രമിക്കാം പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് കൺസോളിനുള്ളിൽ MySQL db ഇമ്പോർട്ട് ചെയ്യുക ഇത് വിജയകരമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ യാതൊരു എററും ഉണ്ടാവുകയില്ല ഇപ്പോൾMySQL എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം MySQL minus u root minus P എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പാസ്സ്വേഡ് എന്റർ ചെയ്ത് MySQL അക്കൌണ്ടിൽ ലോഗിൻ ചെയ്യുക നിങ്ങൾ ഇപ്പോൾ MySQL പ്രോംപ്റ്റിനുള്ളിലായിരിക്കും കമാൻഡ് ഉപയോഗിച്ച് ഡേറ്റ ശേഖരിക്കുന്നതിനുള്ള ഡേറ്റാബേസ് നിർമിക്കാൻ create database osn data എന്ന കമാൻഡ് ഉപയോഗിക്കുക ഇപ്പോൾട്വിറ്റർ API ശേഖരിച്ച ട്വീറ്റുകൾ സംഭരിക്കുന്നതിന് നമുക്ക് ഒരു പട്ടിക ഉണ്ടാക്കാം use osn data എന്ന് ടൈപ്പ് ചെയ്ത് കൊണ്ട് ആദ്യം നമ്മൾ പുതുതായി സൃഷ്ടിച്ച ഡാറ്റാബേസിലേക്ക് മാറേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് ഇനിപ്പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് ഒരു പട്ടിക നിർമിക്കാം ഇവിടെനമ്മൾ ട്വീറ്റ് ഐഡിയായി പ്രൈമറി കീ സജ്ജീകരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഡേറ്റ സംഭരിക്കുന്നതിന് ഒരു ഡേറ്റ ബേസും ഒരു പട്ടികയും ഉണ്ട് ട്വിറ്ററിൽ നിന്ന് മുമ്പ് ലഭിച്ച ഡാറ്റ എങ്ങനെ ഒരു MySQL ഡേറ്റബേസിൽ സംഭരിക്കാമെന്ന് നമുക്ക് നോക്കാം ട്വിറ്ററിൽ നിന്ന് തത്സമയ ഡാറ്റ ശേഖരിക്കുന്നതിനുവേണ്ടി നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റിലേക്ക് നമുക്ക് പോകാം നിങ്ങൾക്ക് ഒരു കൂട്ടം കീവേഡുകൾ ഒരു വലിയ സമയം നിരീക്ഷിക്കേണ്ടിവന്നാൽ ഒരു ഡാറ്റാബേസിൽ ഔട്ട്പുട്ട് സംഭരിക്കുന്നതിന് അത് സഹായകമാകും അതിനാൽ ഇത് ഇൻഡെക്സ് ചെയ്യുകയും പിന്നീട് എളുപ്പത്തിൽ അന്വേഷിക്കുകയും ചെയ്യാം ഇപ്പോൾ ഒരു MySQL പട്ടികയിൽ ഡേറ്റ സംഭരിക്കുന്നതിന് നിലവിലുള്ള സ്ക്രിപ്റ്റിൽ നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നോക്കാം നമ്മൾ MySQL db ഇമ്പോർട്ട് ചെയ്തു കൊണ്ട് തുടങ്ങാം തുടർന്ന് MySQL ആക്സസ് ചെയ്യുന്നതിനുള്ള യോഗ്യതകൾ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മളുടെ ലോക്കൽ മെഷീനിൽ നമ്മൾ MySQL ആക്സസ് ചെയ്യുന്നതിനാൽ ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റായിരിക്കുമെന്നത് ശ്രദ്ധിക്കുക നമ്മൾ ഡേറ്റ സംഭരിക്കുന്ന ഡേറ്റബേസിന്റെ പേരാണ് Db അടുത്തതായി നമുക്ക് രണ്ട് ഫങ്ക്ഷനുകൾ ഉണ്ട് MySQL ലേക്ക് കണക്ഷൻ തുറക്കുന്നതിനും അടയ്ക്കുന്ന തിനും ഉപയോഗിക്കുന്ന ക്രീയേറ്റ് കണക്ഷൻ ക്ലോസ് കണക്ഷൻ എന്നിവയാണവ മുമ്പത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇലക്ഷൻ 2016 എന്ന ഒരു കീവേഡ് ഹാഷ് ട്രാക്കുചെയ്യുകയും ടെർമിനലിൽ ട്വീറ്റ് ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇത്തവണ ഡേറ്റാബേസിൽ നമ്മളിത് ശേഖരിക്കുക കൂടി ചെയ്യും ഇപ്പോൾഓർക്കുക നമ്മൾ ഇതിനകം ട്വീറ്റുകൾ എന്ന പേരിൽ ഒരു പട്ടിക സൃഷ്ടിച്ചിട്ടുണ്ട് അതിൽ ട്വീറ്റ് ഐഡി ട്വീറ്റ് ടെക്സ്റ്റ് എന്ന രണ്ട് ഫീൽഡുകളുണ്ട് ട്വീറ്റ് ഐഡിയുടെയും ട്വീറ്റ് ടെക്സ്റ്റ് ഫീൽഡിന്റെയും മൂല്യം സജ്ജമാക്കാൻ നമ്മൾ insert query എന്നത് പ്രവർത്തിപ്പിക്കണം insert ignore എന്ന കമാൻഡ് നിലവിലുള്ള പ്രൈമറി കീ ഉപയോഗിച്ച് ഒരു പുതിയ എൻട്രി ഉൾപ്പെടുത്തുന്നത് അവഗണിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് ഈ ഫയൽ എടുത്ത് റൺ ചെയ്യാൻ ശ്രമിക്കാം കുറച്ച് സമയത്തിനുള്ളിൽ ട്വീറ്റുകൾ വരാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാം ടെർമിനലിൽ ഒരു പുതിയ ടാബ് തുറന്ന് നമുക്ക് MySQL ലേക്ക് പോകാം നിങ്ങൾ MySQL പ്രോംപ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഡാറ്റ ബേസ് OSN ഡാറ്റയിലേക്ക് സ്വിച്ച് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ show tables എന്ന കമാൻഡ് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രത്യേക ഡാറ്റാബേസിലെ പട്ടികകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്ട്രീമിംഗ് API യിൽ നിന്നുള്ള ട്വീറ്റ് ടെക്സ്റ്റും ട്വീറ്റ് ഐഡിയും സമാന്തരമായി പ്രവർത്തിക്കുന്ന ട്വീറ്റ് ടേബിളും നമ്മളുടെ പക്കലുണ്ട് ട്വീറ്റ് പട്ടികയിലെ ഡാറ്റ ആക്സസ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം അതിനായി select star from tweets എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക അവിടെ താഴെ ഭാഗത്തായി ഒരു സെറ്റിൽ 12 വരികളുള്ള ഒരു കൂട്ടം ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പട്ടികയിൽ ഇതുവരെ ലഭ്യമായ ട്വീറ്റുകളുടെ എണ്ണം നമുക്ക് ഇവിടെ പരിശോധിക്കാം അതിനുവേണ്ടി മുമ്പത്തെ കമാൻഡിലേക്ക് പോകുകഎന്നാൽ ഇത്തവണ സ്റ്റാർ എന്നതിനു മുൻപിൽ എണ്ണം ചേർത്ത് ബ്രാക്കറ്റുകളിൽ ഉൾപ്പെടുത്തുക ഈ കമാൻഡ് പട്ടികയിലെ വരികളുടെ എണ്ണം കണക്കാക്കും ഇപ്പോൾ ഈ പ്രത്യേക പട്ടികയിൽ നമുക്ക് 25 ട്വീറ്റുകളുണ്ട് കൂടുതൽ ഫലപ്രദമായ വിവരശേഖരണത്തിനായി select query പൈത്തൺ സ്ക്രിപ്റ്റിൽ കൂട്ടിച്ചേർക്കുവാനും കഴിയും